നമുക്ക് അടിസ്ഥാന കോൺസെപ്റ് നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കറന്റ് വോൾടേജ് എന്നിവ കറന്റ് കൊടുത്തതും കിട്ടിയതും ഇനി അടിസ്ഥാനനിയമങ്ങൾ നോക്കാം ഇലക്ട്രിക്ക് സർക്യൂട് അനാലിസിസ് പൊതുവായി നോക്കിയാൽ കറന്റ് വോൾടേജ് ആണ് പ്രധാനം അത് നാം ചാപ്റ്റർ 1 ൽ നോക്കിയതാണ് ഒരു സർക്യൂട് കിട്ടിയാൽ നമുക്ക് വേണ്ട വേരിയബിൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കണം പിന്നെ അടിസ്ഥാന നിയമങ്ങൾ ഏതൊക്കെ എന്നും അറിയണം ഈ നിയമങ്ങൾ ഒഹ്മ്സ് ലോ ohm's law കിർച്ചോഫ് കറന്റ് ലോ Kirchhoff's current law പിന്നെ കിർച്ചോഫ് വോൾടേജ് ലോ Kirchhoff's voltage law ഇത് KCL പിന്നെ ഇത് KVL അതിനു മുമ്പ് ഒഹ്മ്സ് ലോ ohm's law ഇത് പ്രധാനമായും അടിസ്ഥാനപരമാണ് അതിൽ നിന്നുമാണ് ഇലക്ട്രിക്ക് സർക്യൂട് അനാലിസിസ് നിർമിക്കുന്നത് അതിനാൽ ഈ ടോപിക്കിൽ ഈ നിയമങ്ങൾ അല്ലാതെ നമ്മൾ നോക്കുക ഇലക്ട്രിക്ക് സർക്യൂട് അനാലിസിസ് ലെ ചില പൊതുവായ ടെക്നിക് കൾ ആയിരിക്കും അതിൽ നാം കറന്റ് ഡിവിഷൻ വോൾടേജ് ഡിവിഷൻ സീരീസ് അല്ലെങ്കിൽ പാരലൽ ആയ റെസിസ്റ്റർ കമ്പൈൻ ചെയ്യുക പിന്നെ സ്റ്റാർ റ്റു ഡെൽറ്റ പിന്നെ ഡെൽറ്റ റ്റു സ്റ്റാർ പരിവർത്തനം എന്നിവ ആയിരിക്കും അല്ലെ ഇതിൽ പ്രത്യേകിച്ച് അടിസ്ഥാന നിയമങ്ങളിൽ നാം നോക്കുക ഈ നിയമങ്ങളുടെ പ്രായോഗിക വശം ആയിരിക്കും പിന്നെ ടെക്നിക് എന്നത് റെസിസ്റ്റർ സർക്യൂട്ട് ൽ പരിമിതിപ്പെടുത്തിയിരിക്കും പല ഉദാഹരണങ്ങളും തന്നിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ നാം DC യുടെ ഉദാഹരണങ്ങൾ ആയിരിക്കും നോക്കുക ആദ്യം നമുക്ക് ഓംസ് ലോ ohm's law നോക്കാം പൊതുവായി പറഞ്ഞാൽ ഇലക്ട്രിക്ക് ചാർജിനെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു സവിശേഷത പദാർത്ഥങ്ങൾക്ക് ഉണ്ട് ചാർജിനെ പ്രതിരോധിക്കുക എന്നതിന്റെ അർഥം കറന്റ് നെ പ്രതിരോധിക്കുക എന്നതാണ് അതിനാൽ കറന്റ് നെ പ്രതിരോധിക്കുക എന്ന ഈ സവിശേഷത്തെയാണ് നാം റെസിസ്റ്റൻസ് എന്ന് പറയുക അത് ഏതു മെറ്റീരിയൽ ആണെങ്കിലും ബാധകം ആണ് ഇതിനെ പ്രതിനിധീകരിക്കാൻ നാം R എന്ന സിംബൽ ആണ് ഉപയോഗിക്കുക മറ്റൊരു രീതിക്കു പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എന്നത് ഇലക്ട്രിക്ക് കറന്റ് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഇലക്ട്രിക്ക് ചാർജ് നെ തടയാനുള്ള മെറ്റീരിയൽ ന്റെ കഴിവാണ് നമുക്ക് ആശയ പരമായി ഈ റെസിസ്റ്റൻസ് എന്താണെന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ ആകും ഇങ്ങനെ ചിന്തിക്കുക കറന്റിനു കാരണമായ ഇലക്ട്രോൺ മെറ്റീരിയൽ കൂടെ കടന്നു പോകുമ്പോൾ അതിലെ ആറ്റം ആയി സമ്പർക്കത്തിൽ ആകുന്നു ഈ ആറ്റത്തിന്റെ ഘടനയാണ് ഇലെക്ട്രോൺ നെ എതിർക്കുന്നത് ഈ സമ്പർക്കം കാരണം കുറച്ചു ഇലെക്ട്രിക്കൽ എനർജി ഹീറ്റ് ആയി മാറുന്നു അത് യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചില ഇലെക്ട്രിക്കൽ ഉപകരണങ്ങൾ ഈ തത്വം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഉദാഹരണം സ്പേസ് ഹീറ്റർ അയൺ സ്റ്റവ് പിന്നെ ടോസ്റ്റർ ഇത് ഈ റെസിസ്റ്റൻസ് കാരണം ആണ് സംഭവിച്ചത് ഈ ഫിഗർ 2 1 നോക്കുക ഈ ഫിഗർ 1 ൽ കാണിച്ചിരിക്കുന്നത് സമമായ ക്രോസ്സ് സെക്ഷൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ ഏരിയ എന്നത് A യും പിന്നെ നീളം എന്നത് l ഉം ആണ് ഇതിന്റെ റെസിസ്റ്റിവിറ്റി റോ എന്നത് Ωm ആണ് അതായതു ഓം മീറ്റർ ഞാൻ ഇത് റെഡ് മഷിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതിനെയാണ് യൂണിഫോം ക്രോസ്സ് സെക്ഷൻ എന്ന് പറയുക ഈ വയർ ഒരു സിലിണ്ടർ ന്റെ രൂപത്തിൽ ആണ് അതിന്റെ ഏരിയ എന്നത് A യും പിന്നെ നീളം എന്നത് l ഉം ആണ് പിന്നെ റെസിസ്റ്റിവിറ്റി റോ ഇതാണ് റെസിസ്റ്റിവിറ്റി യുടെ സിംബൽ പിന്നെ ഇവിടെ കറന്റ് പ്രവേശിക്കുന്നു ഈ റെസിസ്റ്റൻസ് എന്നത് ഇതിനു മുമ്പേ നാം നോക്കിയ കാര്യം ആണ് പിന്നെ ഈ റെസിസ്റ്റർ പാസ്സീവ് എലമെന്റ് ആണ് എന്നതും നോക്കുക അതിനാൽ പവർ അബ്സോർബ് ആണ് ചെയ്യുക അതിനാൽ ആണ് ഈ കറന്റ് ഈ 2 ടെർമിനൽ ഡിവൈസ് ൽ ഇത് പോലെ പോസിറ്റീവ് ടെർമിനൽ പ്രവേശിക്കുന്നത് അപ്പോൾ ഈ റെസിസ്റ്റർ യഥാർത്ഥത്തിൽ അബ്സോർബ് ചെയ്യുകയാണ് ഇത് ഒരു പാസ്സീവ് എലമെന്റ് ആയതിനാൽ അബ്സോർബ് ആണ് ചെയ്യുക അതിനാൽ ആണ് ഇത് പിന്നെ ഇത് എന്നിങ്ങനെ എടുത്തിരിക്കുന്നത് അത് വേണമെങ്കിൽ തിരിച്ചും എടുക്കാം പക്ഷെ അവസാനം മനസ്സിലാക്കേണ്ടത് ഈ റെസിസ്റ്റർ എന്നത് പവർ അബ്സോർബ് ആണ് ചെയ്യുക അതിനാലാണ് നാം സിംബൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇത് മനസിലാക്കുക ഫിസിക്സ് ലെ ഇലെക്ട്രിസിറ്റി യിൽ നിന്നും നമുക്ക് അറിയാം R റോ l ബൈ A ആണ് ഈ റെസിസ്റ്റൻസ് ന്റെ വാല്യൂ എന്നത് മെറ്റീരിയൽ ഏതു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതായതു സ്വർണം വെള്ളി അലുമിനിയം ചെമ്പ് അങ്ങനെ എന്താണോ ഉപയോഗിച്ചത് അതിനെ ആശ്രയിച്ചിരിക്കും നല്ല കണ്ടക്ടർ ആയ സിൽവർ കോപ്പർ എന്നിവക്ക് റെസിസ്റ്റിവിറ്റി എന്നത് വളരെ കുറവായിരിക്കും റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ നമുക്ക് പറയാം റെസിസ്റ്റൻസ് എന്നതും കുറവായിരിക്കും അതിനാൽ ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ കുറവാണു അത് വയർ ചെയ്യാനായി നമുക്ക് തെരഞ്ഞെടുക്കാം അതിനാൽ ഈ കോപ്പർ അലൂമിനിയം എന്നിവ റെസിസ്റ്റർ ഉണ്ടാക്കാനായി നാം ഉപയോഗിക്കാറില്ല അതായതു ഈ വയർ നമുക്ക് റെസിസ്റ്റർ ഉണ്ടാക്കാനായി ഉപയോഗിക്കാൻ പറ്റില്ല എന്തെന്നാൽ ഇതിന്റെ റെസിസ്റ്റിവിറ്റി എന്നത് വളരെ കുറവാണു അത് നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നു നാം റെസിസ്റ്റർ ഉണ്ടാക്കാനായി കാർബൺ പിന്നെ മറ്റു ചില അലോയ് ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ സർക്യൂട് കളിൽ നാം കോപ്പർ അലുമിനിയം മുതലായവ റെസിസ്റ്റർ ആയി ഉപയോഗിക്കാറില്ല അപ്പോൾ നാം വയറിന്റെ റെസിസ്റ്റൻസ് എന്നത് 0 ആയാണ് കണക്കാക്കുക എന്തെന്നാൽ ഈ വയറിന്റെ റെസിസ്റ്റൻസ് എന്നുള്ളത് മറ്റുള്ള എലെമെന്റുകൾ വച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് അതിനാൽ തന്നെ അത് നമുക്ക് അവഗണിക്കാം ഇത് വളരെ ചെറുതാണ് ഏകദേശം 0 അതിനാൽ നാം അത് ഒഴിവാക്കും അതിനാൽ നമ്മുടെ സർക്യൂട് ലളിതമാക്കപ്പെടും അതിനാൽ നാം കോമ്പൌണ്ട്കളിൽ നിന്നാണ് റെസിസ്റ്റർ നിർമിക്കുക അത് മെറ്റൽ അലോയ് പിന്നെ കാർബൺ കോമ്പൌണ്ട് എന്നിവയിൽ നിന്നുമാണ് റെസിസ്റ്റർ നിർമിക്കുക നാം ഈ ഫസ്റ്റ് ഇയർ ലാബിൽ ഇതിന്റെ ചെയ്യുന്നുണ്ട് ഇതിൽ നാം ബാരിയർ ടൈപ്പ് റിയോ സ്റ്റാറ് നോക്കുന്നതാണ് ഇതിൽ റെസിസ്റ്റർ ന്റെ സിംബൽ ആണ് കൊടുത്തിരിക്കുന്നത് അത് എന്ത് കൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചു കുറച്ചു കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റിവിറ്റിക്കു വേണ്ടി ഗോൾഡ് പോലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് ഈ റെസിസ്റ്റിവിറ്റി എന്നത് ഓം മീറ്റർ ൽ ആണ് പറയുക ഗോൾഡ് ന്റെ റെസിസ്റ്റിവിറ്റി എന്നത് 2 45 10 ന്റെ പവർ 8 ആണ് അതിനാൽ അത് നല്ല കണ്ടക്ടർ ആണ് പക്ഷെ വളരെ വിലപിടിച്ചതും ആണ് സിൽവർന്റെ റെസിസ്റ്റിവിറ്റിയും വളരെ കുറവാണു അത് 1 64 10 ന്റെ പവർ 8 എന്നാൽ ഇതും വിലപിടിച്ചതാണ് അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നാൽ കോപ്പർ അലൂമിനിയം എന്നിവ നല്ല കണ്ടക്ടർ ആണ് അതിൽ കോപ്പർ ന്റെ വാല്യൂ 1 72 10 ന്റെ പവർ 8 ആണ് അലൂമിനിയം എന്നത് 2 8 10 ന്റെ പവർ 8 ആണ് പിന്നെ ഉള്ളത് സെമി കണ്ടക്ടർ ആണ് അപ്പോൾ മെറ്റീരിയൽ കണ്ടക്ടർ സെമി കണ്ടക്ടർ പിന്നെ ഇന്സുലേറ്റർ എന്നിങ്ങനെ ആണ് ഇനി സിലിക്കൺ എന്നത് 6 4 10 ന്റെ പവർ 2 ആണ് അത് സെമി കണ്ടക്ടർ ആണ് കാർബൺ ന്റെ വാല്യൂ 4 4 10 5 അതും ഒരു സെമി കണ്ടക്ടർ ആണ് പിന്നെ ജർമേനിയം അത് 47 10 2 അതും സെമി കണ്ടക്ടർ ആണ് പിന്നെ മൈക്ക അത് 5 1011 ആണ് അതിനാൽ അത് ഇൻസുലേറ്റർ ആണ് ഇതെല്ലം തന്നെ ഓം മീറ്റർ ൽ ആണ് പറയുക ഇനി പേപ്പർ ന്റെ വാല്യൂ 1 1010 ആണ് അതും ഇന്സുലേറ്റർ ആണ് ഈ റെസിസ്റ്റിവിറ്റി വച്ച് വേണം ഇത് മനസ്സിലാക്കാൻ ഇനി Ω അദ്ദേഹം ഒരു ജർമൻ ശാസ്ത്രജ്ഞൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം 1787 മുതൽ 1854 വരെ ആയിരുന്നു അദ്ദേഹം ആണ് ഒരു റെസിസ്റ്റിർ ന്റെ കറന്റ് വോൾടേജ് തമ്മിൽ ഉള്ള റിലേഷൻ കണ്ടെത്തിയത് ഈ റിലേഷൻ ആണ് ഓംസ് ലോ ohm's law ഈ ഓംസ് ലോ ohm's law എന്നത് വോൾടേജ്ഉം കറന്റ് ഉം തമ്മിലുള്ള അൽജിബ്ര റിലേഷൻ അപ്പോൾ ഈ ഓംസ് ലോ ohm's law എന്നത് പറയുന്നത് ഒരു റെസിസ്റ്റർ നു കുറുകെ ഉള്ള വോൾടേജ് എന്നത് അതിലൂടെ ഒഴുകുന്ന കറന്റ് നു ആനുപാതികമാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഒരു റെസിസ്റ്റർ ഉണ്ട് അതിൽ കൂടെ കറന്റ് പോകുന്നതും ഉണ്ട് ഈ കറന്റ് എന്നത് i ആണ് പിന്നെ വോൾടേജ് എന്നത് v യും ആണ് നമുക്കറിയാം ഈ v എന്നത് i ക്കു ആനുപാതികം ആണ് ഇനി v Ri എന്ന് എഴുതാം ഈ പ്രൊപോർഷൻ കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് അതായതു v എന്നത് i ക്കു ആനുപാതികമാണ് അതാണ് ഇക്വേഷൻ 2 2 അത് ചാപ്റ്റർ 2ൽ ആണ് ഈ ഇക്വേഷൻ 3 അതായതു 2 3 ആണ് ഓംസ് ലോ ohm 's law യുടെ മാത്തമറ്റിക്കൽ രൂപം ഓം ഈ റെസിസ്റ്റർ ന്റെ പ്രൊപോർഷൻ കോൺസ്റ്റന്റ് നെ റെസിസ്റ്റൻസ് R എന്നാണ് വിളിച്ചത് ഈ റെസിസ്റ്റൻസ് എന്നത് എലമെന്റ് ന്റെ ബാഹ്യമോ ആന്തരികമോ ആയ ഘടകങ്ങൾക്കനുസരിച്ചു മാറ്റം വരാവുന്നതാണ് അതായതു ഈ റെസിസ്റ്റൻസ് എന്നത് എലമെന്റ് ന്റെ ബാഹ്യമോ ആന്തരികമോ ആയ ഘടകങ്ങൾക്കനുസരിച്ചു മാറ്റം വരാവുന്നതാണ് അതായതു ടെമ്പറേച്ചർ കൂടുകയാണേൽ റെസിസ്റ്റൻസ് കൂടുന്നതാണ് അതായതു ടെമ്പറേച്ചർ ൽ മാറ്റം ഉണ്ടായാൽ റെസിസ്റ്റൻസ് മാറുന്നതാണ് 3 അനുസരിച്ചു റെസിസ്റ്റൻസ് അളക്കുന്നത് Ω എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് R v i എന്ന് എഴുതാനാകും ഇതിൽ v എന്നത് വോൾട്ടിൽ ആണ് പറയുക പിന്നെ i എന്നത് ആമ്പിയർ പിന്നെ R എന്നത് Ω ൽ 1 Ω എന്നത് 1 വോൾട് പേർ ആമ്പിയർ ആണ് ഇത് മനസ്സിലാക്കാനാകുന്ന കാര്യമാണ് ഇനി വോൾടേജ് v യുടെ പൊളാരിറ്റി യും പിന്നെ കറന്റ് i യുടെ ഡയറക്ഷനും കണ്ടു പിടിക്കണം അത് പാസ്സീവ് സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് ഈ ഫിഗർ 2 1 b യിൽ കാണിച്ചിരിക്കുന്നു ഞാൻ ഇത് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ R എന്നത് പാസ്സീവ് എലമെന്റ് ആയ റെസിസ്റ്റർ ആണ് കറന്റ് പ്രവേശിക്കുന്ന ടെർമിനൽ ആണ് ആക്കേണ്ടത് പിന്നെ ഇത് ഇവിടെ കറന്റ് പോസിറ്റീവ് ടെർമിനൽ കൂടെ ആണ് പ്രവേശിക്കുന്നത് എന്ന് അനുമാനിക്കാം അതിനാൽ ഇവിടെ പവർ അബ്സോർബ് ആയി ഇവിടെ വോൾടേജ് എന്നത് v iR ഇതാണ് ഈ ഫിഗർ 2 1 b യിൽ കാണിച്ചിരിക്കുന്ന കൺവെൻഷൻ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ആണ് അതിനാൽ കറന്റ് എന്നത് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുന്നത് ഇനി നേരെ തിരിച്ചാണെങ്കിൽ പറയാം v - R അതിന്റെ അർഥം ഏകദേശം ഇതുപോലെ ആണ് ഈ ഫിഗർ 2 1 b യിലേക്ക് ഒന്ന് കൂടെ പോകാം ഇതിൽ ഈ കറന്റ് i എന്നത് ഇതിലെ ആണ് അതായതു ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് അല്ലെ അതായതു കറന്റ് എന്നത് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുന്നതെങ്കിൽ v എന്നത് iR ആയിരിക്കും അതിന്റെ അർഥം നിങ്ങൾ മനസിലാക്കുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ഉം പിന്നെ ഇവിടെ ഉം ആകുന്നു ഇതാണ് എന്റെ റെസിസ്റ്റൻസ് R ഇനി കറന്റ് ഇങ്ങനെ ആണ് എന്ന് കരുതിയാലോ v എന്നത് iR ആയിരിക്കും എന്തെന്നാൽ കറന്റ് താഴ്ന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്ന പൊട്ടൻഷ്യലിലേക്കാണ് ഇവിടെ ഒഴുകുന്നത് അതിനാൽ ഇത് v iR ആയിരിക്കും എന്നാൽ ന്യൂമെറിക്കൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സാധ്യമല്ല എന്തെന്നാൽ റെസിസ്റ്റർ എന്നത് പാസ്സീവ് എലമെന്റ് ആണ് അവിടെ പവർ അബ്സോർബ് ചെയ്യുകയാണ് അപ്പോൾ ആ നെഗറ്റീവും കൂടെ ചേർന്ന് ഇത് iR ആയി മാറുന്നു എന്തെന്നാൽ ഇവിടെ ഡയറക്ഷൻ മാറുന്നു ഈ കേസിൽ കറന്റ് ഡയറക്ഷൻ മാറിയാൽ അത് v iR എന്നാകുന്നു പിന്നീട് നാം KVL നോക്കുമ്പോൾ അത് കാണാം ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇത് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് ഇനി താഴ്ന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്ന പൊട്ടൻഷ്യലിലേക്കാണ് എങ്കിലോ അപ്പോൾ v i R ആയിരിക്കും പക്ഷെ R ന്റെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ ആണ് നാം രണ്ടു അറ്റത്തുള്ള വാല്യൂ വേണം നോക്കാൻ അതായതു R എന്നത് ഇൻഫിനിറ്റി ആകുമ്പോൾ പിന്നെ 0 ആകുമ്പോൾ ഉദാഹരണത്തിന് ഈ സർക്യൂട് നോക്കുക ഇത് വിശദീകരിക്കുന്നതിനു മുമ്പായി ഈ സർക്യൂട് ഒരു ലളിതമായ ബോക്സ് ഉപയോഗിച്ചാണ് റെപ്രെസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസിലാക്കുക ഇത് തുറന്നിരിക്കുകയാണ് അതായതു R എന്നത് ഇൻഫിനിറ്റി ആണ് അതായതു കറന്റ് 0 ആണ് എപ്പോൾ R എന്നത് ആകുമോ അല്ലെങ്കിൽ യോട് അടുത്തെത്തുമോ i v R എന്നത് 0 ആയിരിക്കും അതായതു R എന്നത് യോട് അടുത്തെത്തുമോ അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട് ആയിരിക്കും ഇനി എപ്പോൾ R 0 ആകുമോ ഇത് ഒരു എലെക്ട്രിക്കൽ എലെമെന്റും ഇല്ലാതെ വയർ ഉപയോഗിച്ച് നേരെ കണക്ട് ചെയ്യുക അതായത് ഈ വയർ ന്റെ റെസിസ്റ്റൻസ് എന്നത് നമുക്ക് ഒഴിവാക്കാനാകും അതായതു R 0 ആകുമ്പോൾ i v R എന്നത് വളരെ വലുതായിരിക്കും അപ്പോൾ ഈ v 0 ആയിരിക്കും ഓപ്പൺ സർക്യൂട് ൽ v ഉണ്ടായിരിക്കും പക്ഷെ i എന്നത് 0 ആയിരിക്കും അപ്പോൾ R എന്നത് ഇൻഫിനിറ്റി യിലേക്ക് പോകുന്നു എന്നാൽ ഷോർട് സർക്യൂട് ആകുമ്പോൾ അതായതു ഈ രണ്ടു ടെര്മിനലുകൾ ഷോർട് ആക്കി എന്ന് കരുതുക അപ്പോൾ കറന്റ് ഉണ്ടാകും എന്തെന്നാൽ ഇത് ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും കറന്റ് i അവിടെ ഉണ്ടാകും എന്നാൽ വളരെ വലുതായിരിക്കും എന്നാൽ R 0 ആയിരിക്കും അതെ സമയം v 0 ആയിരിക്കും എന്തന്നാൽ R എന്നത് 0 ആണെങ്കിൽ v യും 0 ആയിരിക്കും അതായതു R എന്നത് ഇൻഫിനിറ്റി യിലേക്ക് പോകുമ്പോൾ i എന്നത് 0 ആകുന്നു അത് ഓപ്പൺ സർക്യൂട് ആണ് ഇനി ഷോർട് സർക്യൂട് ആകുമ്പോൾ R എന്നത് 0 യിലേക്ക് പോകുന്നു അപ്പോൾ v 0 ആകും എന്നാൽ i എന്നത് 0 ആകില്ല അങ്ങനെ എഴുതിയാൽ അത് തെറ്റാണു അത് വലിയ കറന്റ് ആകും വഹിക്കുക ഷോർട് സർക്യൂട് ഉണ്ടായാൽ എലെക്ട്രിക്കൽ ഉപകരണങ്ങൾ നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് ഇതാണ് രണ്ടു കേസുകൾ ഒന്ന് ഓപ്പൺ സർക്യൂട് അടുത്ത് ക്ലോസ്ഡ് സർക്യൂട് ഓപ്പൺ സർക്യൂട് ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്നത് ഇൻഫിനിറ്റി ആയിരിക്കും പിന്നെ ക്ലോസ്ഡ് സർക്യൂട് ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്നത് 0 ആയിരിക്കും നമുക്ക് ഇതിൽ സിംബൽ ഉൾപ്പടെ ഉള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം ഈ റെസിസ്റ്റർ എന്നത് ഫിക്സഡ് ആകാം അല്ലെങ്കിൽ വേരിയബിൾ ആകാം ഇവിടെ ഇവിടെ 3 സിംബൽ ആണുള്ളത് ഇത് ഫിക്സഡ് റെസിസ്റ്റർ ആണ് ഇവിടെ 2 ടെർമിനലുകൾ ആണുള്ളത് ഇത് ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ് ഇനി ഈ കേസ് നോക്കുക ഇവിടെ വേരിയബിൾ റെസിസ്റ്റൻസ് ആണുള്ളത് ഇത് വഴി ഒരു ആരോ വരികയാണേൽ അത് വേരിയബിൾ റെസിസ്റ്റർ ആണ് നാം ഫസ്റ്റ് ഇയർ ലാബ് ചെയ്യുമ്പോൾ ഇവ നോക്കുന്നതാണ് ഇതിൽ 3 ടെർമിനലുകൾ ആണുള്ളത് ഇതിൽ അറ്റത്തെ 2 എണ്ണം ആണെങ്കിൽ റെസിസ്റ്റർ നു ഫിക്സഡ് വാല്യൂ ആണുള്ളത് അതല്ല ഒരു ഫിക്സഡ് പിന്നെ ഒരു വേരിയബിൾ ആണെങ്കിൽ അങ്ങനെയല്ല നാം ഫസ്റ്റ് ഇയർ ലാബിൽ ഈ ബാരിയർ ടൈപ്പ് റിയോ സ്റ്റേറ് നോക്കുന്നതാണ് ഇനി മൂന്നാമത്തേത് ഈ വൈപ്പർ ഇതും വേരിയബിൾ ആണ് ഇത് പൊട്ടൻഷിയോ മീറ്റർ ആണ് ഇത് ഫിസിക്സ് ലാബിൽ കണ്ടിട്ടുണ്ടാകാം ഇതാണ് പൊട്ടൻഷിയോ മീറ്റർ ഈ മൂന്നാമത്തെ സിംബൽ ആണ് പൊട്ടൻഷിയോ മീറ്റർ അതിനെ പോട്ട് എന്ന് ചുരുക്കി വിളിക്കാം അതിനാൽ ഇത് ഒരു പൊട്ടൻഷിയോ മീറ്റർ ആണ് പിന്നെ ഇതൊരു വേരിയബിൾ റെസിസ്റ്ററും ആണ് എപ്പോഴൊക്കെ ഈ ആരോ ഇവിടുണ്ടോ അത് വേരിയബിൾ ആണ് എന്നാൽ ഇത് ഫിക്സഡ് ആണ് ഇതാണ് ഇവയുടെ സിംബൽ എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു ഇതു വീണ്ടും പറയുന്നില്ല ഇതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എല്ലാ റെസിസ്റ്ററുകളും ഓംസ് ലോ അനുസരിക്കണം എന്ന് നിർബന്ധം ഇല്ല എന്തെന്നാൽ റെസിസ്റ്റർ നോൺ ലീനിയർ ആകാം ആ കേസിൽ ഓംസ് ലോ അനുസരിക്കില്ല അപ്പോൾ ഓംസ് ലോ എല്ലായ്പോഴും അനുസരിക്കുന്ന റെസിസ്റ്ററുകളെ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നു ഇത് ഞാൻ അടിവര ഇട്ടു വച്ചിരിക്കുന്നു അതായതു ഓംസ് ലോ എല്ലായ്പോഴും അനുസരിക്കുന്ന റെസിസ്റ്ററുകളെ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നു അപ്പോൾ ഈ ലീനിയർ റെസിസ്റ്റർ നു റെസിസ്റ്റൻസ് എന്നത് സ്ഥിരം ആയിരിക്കും പിന്നെ കറന്റ് വോൾടേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നത് ലീനിയർ ആയിരിക്കും അത് ഒറിജിൻ ലൂടെ പാസ് ചെയ്യുന്നു ഇതൊരു ലീനിയർ റെസിസ്റ്റർ ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന്റെ സ്ലോപ് എന്നത് R ആണ് അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു എന്തെന്നാൽ ഇത് ഓംസ് ലോ അനുസരിക്കുന്നു ഇത് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് v ബൈ i നോക്കിയാൽ ഇതൊരു നേർ രേഖ അല്ല അതൊരു കർവ് പോലെ ആണ് ഇവിടെ റെസിസ്റ്റൻസ് എന്നത് ഓംസ് ലോ അനുസരിക്കില്ല അതാണ് നോൺ ലീനിയർ റെസിസ്റ്റർ അപ്പോൾ നോൺ ലീനിയർ ന്റെ റെസിസ്റ്റൻസ് എന്നത് കറന്റ് അനുസരിച്ചു മാറുന്നതാണ് ഇതാണ് ഒരു സാധാരണ കറന്റ് വോൾടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഉദാഹരണത്തിന് ലൈറ്റ് ബൾബ് പിന്നെ ഡയോഡ് എന്നീ ഉപകരണങ്ങൾ നോൺ ലീനിയർ റെസിസ്റ്റർ ആണ് അതായതു ഓംസ് ലോ അനുസരിക്കുന്ന ഏതുപകരണവും നമുക്ക് ലീനിയർ റെസിസ്റ്റർ ആണെന്ന് പറയാം അല്ല എങ്കിൽ അത് നോൺ ലീനിയർ റെസിസ്റ്റർ ആണ് ഇതാണ് ഒരു ലീനിയർ റെസിസ്റ്റർ ന്റെ iv ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ ആദ്യം കാണിച്ചത് ഒരു നോൺ ലീനിയർ റെസിസ്റ്റർ ന്റെ iv ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നോക്കുക ഈ സർക്യൂട് അനാലിസിസ് എന്നതിൽ ഈ റെസിസ്റ്റൻസ് ന്റെ റേസിപ്രോക്കൽ ഉണ്ടാകും അതിനെയാണ് കണ്ടക്ടൻസ് എന്ന് പറയുക അതായതു G 1 R ആണ് v iR ആണെങ്കിൽ 1 R i v ആയിരിക്കും അതായതു G iv അപ്പോൾ കണ്ടക്ടൻസ് G എന്നത് ഒരു എലമെന്റ് എങ്ങനെ കറന്റ് കണ്ടക്ട് ചെയ്യും എന്നതിന്റെ അളവാണ് ഇത് ഒരു ഐഡിയ ആണ് അപ്പോൾ കണ്ടക്ടൻസ് G എന്നത് ഒരു എലമെന്റ് എങ്ങനെ കറന്റ് കണ്ടക്ട് ചെയ്യും എന്നതിന്റെ അളവാണ് അപ്പോൾ കണ്ടക്ടൻസ് എന്നതിന്റെ യൂണിറ്റ് മോ അല്ലെങ്കിൽ സീമെൻസ് ആണ് എന്ത് കൊണ്ടെന്നാൽ Ω എന്നത് റെസിസ്റ്റർ ന്റെ യൂണിറ്റ് ആണ് അതിന്റെ റേസിപ്രോക്കൽ ആയതു കൊണ്ടാണ് ഇതിനെ മോ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സീമെൻസ് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കണ്ടക്ടൻസ് ന്റെ യൂണിറ്റ് അപ്പോൾ 1 സീമെൻസ് 1 മോ 1 ആമ്പിയർ പേർ വോൾട് എന്തെന്നാൽ i എന്നത് ആമ്പിയർ ലും പിന്നെ v എന്നത് വോൾട് ലും ആണ് അതിനാൽ ആമ്പിയർ പേർ വോൾട് ആണ് അപ്പോൾ 1 സീമെൻസ് 1 മോ 1 ആമ്പിയർ പേർ വോൾട് ആണ് ഞാൻ ഇത് ആരംഭിച്ചത് വളരെ അടിസ്ഥാനവും അറിയാവുന്നതുമായ കാര്യങ്ങളിൽ നിന്നാണ് ഒന്നും വിട്ടു പോയിട്ടില്ല എന്ന് കരുതുന്നു അപ്പോൾ ഈ കണ്ടക്ടൻസ് എന്നത് ഒരു എലെമെന്റിന്റെ കറന്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് അതിനാലാണ് ഇവിടെ ഞാൻ അടിവര ഇട്ടിരിക്കുന്നത് കണ്ടക്ടൻസ് എന്നത് ഒരു എലെമെന്റിന്റെ കറന്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇനി ഇക്വേഷൻ 7 അതായതു 2 അത് i Gv എന്നതാണ് അപ്പോൾ ഈ ഇക്വേഷൻ ൽ നിന്നും മനസിലാക്കാം കറന്റ് i എന്നത് കണ്ടക്ടൻസ് വോൾടേജ് ആണ് ഇനി റെസിസ്റ്റർ ൽ ചെലവാക്കപ്പെട്ട പവർ എന്നത് p vi ആണ് അതിൽ v i R എന്ന് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് p i 2 R എന്ന് ലഭിക്കും ഇനി നമുക്കറിയാം i vR ആണ് ഇത് ഞാൻ എഴുതിയാൽ ഇത് ശരിക്കും R ആണ് അപ്പോൾ ഈ i എന്നത് ഇങ്ങനെയും എഴുതാം അപ്പോൾ v2 R2 2 R അതായതു v2 R അതിനാൽ നമുക്കെഴുതാം പവർ എന്നത് i2 R v2R ആണ് ഞാൻ ഇത് മായിച്ചു കളയുന്നു അതിന്റെ അർഥം എന്നത് ഈ R എന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഈ റെസിസ്റ്ററിനു കുറുകെ ഉള്ള ഈ പവർ എന്നതും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും വളരെ സിമ്പിൾ എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം p vi ആണ് പിന്നെ റെസിസ്റ്റർ എന്നത് പാസ്സീവ് എലമെന്റ് ആണ് അത് പവർ അബ്സോർബ് ചെയ്യുകയാണ് ഉണ്ടാകുക പിന്നെ R എന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഏതു സർക്യൂട് ആണെങ്കിലും R എന്നത് പോസിറ്റീവ് ആയി എടുക്കുക അതായതു ഈ വോൾടേജ് എന്നത് ആയാലും ആയാലും R എന്നത് പോസിറ്റീവ് തന്നെ ആയിരിക്കും പവർ എന്നത് p v2 R ആണ് അതും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതിന്റെ അർഥം പവർ അബ്സോർബ് ചെയ്തു ഇനി നമുക്ക് നോക്കാം നമുക്കറിയാം p vi ആണ് ഇത് v ആണ് ഇനി കണ്ടക്ടൻസ് ന്റെ രീതിയിൽ പറഞ്ഞാൽ i G v ആണ് അതായതു പവർ v2 G ആകുന്നു നമുക്ക് അത് അങ്ങനെ പറയാം എന്തെന്നാൽ i Gv ആണ് അത് ഇവിടെ കൊടുത്താൽ നമുക്ക് ഈ ഉത്തരം ലഭിക്കും നമുക്കറിയാം ഇവിടെ v സോറി i G v ആണ് അതിനാൽ v എന്നത് i ബൈ G ആണ് അത് ഇവിടെ കൊടുക്കുക അപ്പോൾ i2 G2 2 G അതായതു i lrm ബൈ G അതാണ് നമുക്ക് കിട്ടിയത് അതിനാൽ ഇത് G ആണ് ഇനി എനിക്ക് ഇത് ക്ലീൻ ആക്കാം അല്ലെ ഇവിടെയും ഇത് v 2 i 2 ഞാൻ പറയാൻ വന്നത് ഇവിടെ G എന്നതും പോസിറ്റീവ് ആയി എടുക്കണം എന്തെന്നാൽ ഇത് റെസിസ്റ്റൻസ് ന്റെ റേസിപ്രോക്കൽ ആണ് അതിനാൽ കണ്ടക്ടൻസ് എന്നതു എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഇത് v2 2 അല്ലെങ്കിൽ i2 2 ആണ് അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതിന്റെ അർഥം എന്നത് ഈ റെസിസ്റ്റർ ലെ പവർ എന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും പിന്നെ പവർ അബ്സോർബ് ആയിരിക്കും ഈ പവർ എന്നത് വോൾടേജ് അല്ലെങ്കിൽ കറന്റ് ന്റെ നോൺ ലീനിയർ ഫങ്ക്ഷൻ ആയിരിക്കും അതൊരു പരാബോളിക് ടൈപ്പ് ആണ് അപ്പോൾ p i2 R v2R അല്ലെങ്കിൽ p v2 G or i2G അതൊരു പരാബോളിക് ടൈപ്പ് ഫങ്ക്ഷൻ ആണ് ഈ ഗ്രാഫ് എന്നത് ഒന്നുകിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഇതൊരു പരാബോളിക് ഫങ്ക്ഷൻ ആയിരിക്കും റെസിസ്റ്റൻസ് R ഉം പിന്നെ കണ്ടക്ടൻസ് G യും ഞാൻ മുമ്പ് പറഞ്ഞത് പോലെ എപ്പോഴും പോസിറ്റീവ് ആയതിനാൽ അതിൽ ചെലവാക്കപ്പെടുന്ന പവറും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഞാൻ പറഞ്ഞത് പോലെ റെസിസ്റ്റർ സർക്യൂട്ടിൽ നിന്നും എപ്പോഴും പവർ അബ്സോർബ് ചെയ്യും അതിനാൽ നമുക്ക് ഉറപ്പിക്കാം ഈ റെസിസ്റ്റർ ഒരു പാസ്സീവ് എലെമെന്റ് ആണ് അത് എനർജി നിർമിക്കാൻ ശക്തമല്ല ഈ വീഡിയോ കാണുമ്പോൾ മനസിലാക്കുക നാം എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് ഇത് വരെ നാം നോക്കിയത് ഓംസ് ലോ ആണ് ഇനി നാം ലളിതമായ ഒരു ഉദാഹരണത്തിലേക്കു വരുന്നു ഒരു ഇലക്ട്രിക്ക് ഹീറ്റർ 4 ആംപിയർ കറന്റ് പിന്നെ 240 വോൾട് എന്നിവ ഉപയോഗിക്കുന്നു ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയെന്നു കണ്ടെത്തുക നമുക്കറിയാം v iR ആണ് അപ്പോൾ R എന്നത് v ബൈ i ആണ് v 240 പിന്നെ i 4 അതിനാൽ റെസിസ്റ്റൻസ് എന്നത് 60 Ω ആണ് ഇനി മറ്റൊരു ചെറിയ ഉദാഹരണം 6 ലെ സർക്യൂട് നോക്കുക ഇതിൽ 3 സർക്യൂട്ടുകൾ തന്നിരിക്കുന്നു ഇതിൽ ഒന്നുകിൽ v അല്ലെങ്കിൽ i എന്നത് അറിയാൻ പാടില്ലാത്ത വാല്യൂ ആണ് നമുക്ക് ഈ ഓരോ റെസിസ്റ്ററിലും ഉള്ള v യും i യും കണ്ടുപിടിക്കണം അതിനാൽ v യും i യും നമുക്ക് കണ്ടുപിടിക്കണം ഇതാണോ അറിയില്ലതു അത് നമുക്ക് കണ്ടെത്തണം ഇനി ഈ സർക്യൂട് നോക്കുക ഇത് 1 ആമ്പിയർ ആയ കറന്റ് സോഴ്സ് ആണ് ഇവിടെ കറന്റ് പോസിറ്റീവ് ടെര്മിനലിലേക്കു പ്രവേശിക്കുക ആണ് v iR ആണല്ലോ ഇത് 1 ആംപിയർ ആണ് പിന്നെ R 8 Ω അതിനാൽ v 8 വോൾട് ആണ് ഇവിടെ കറന്റ് എന്നത് പോസിറ്റീവ് ടെർമിനലിൽ കൂടെ ആണ് പ്രവേശിക്കുന്നത് അപ്പോൾ ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും കുറഞ്ഞ പൊട്ടന്സിളിലേക്കു ആണ് പോകുന്നത് അതിനാൽ ഇത് പോസിറ്റീവ് ആകും അപ്പോൾ v iR അതിനാൽ ഇത് 8 വോൾട് ആയിരിക്കും ഇനി രണ്ടാമത്തെ കേസ് ഞാൻ ഇത് പേന വച്ച് മാർക്ക് ചെയ്യുന്നില്ല ഇത് സിമ്പിൾ ആണെന്ന് കരുതുന്നു ഈ 1 ആമ്പിയർ എന്നത് അത്രയും കറന്റ് ആണ് ഈ സർക്യൂട് ലൂടെ ഒഴുകുന്നത് ഞാൻ ഇത് 1 ആമ്പിയർ ആക്കുന്നു ഈ കറന്റ് എങ്ങനെ ആണ് പാസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു അതുപോലെ നോക്കുക ഇവിടെ മോ ആണ് നൽകിയിരിക്കുന്നത് അത് 0 1 മോ ആണ് അപ്പോൾ കണ്ടക്ടൻസ് ആണ് തന്നിരിക്കുന്നത് ഇതിൽ G 0 1 മോ ആണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ കേസിൽ വോൾടേജ് എന്നത് 100 വോൾട് ആണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് കറന്റ് ആണ് ഞാൻ ഇത് ക്ലീൻ ആക്കുകയാണ് ഈ കേസിൽ നമുക്ക് പറയാം i Gv ആണ് അത് നമുക്ക് എവിടെയും പറയാം അപ്പോൾ ഈ G എന്നത് 0 1 പിന്നെ വോൾടേജ് 100 വോൾട് അതിനാൽ i എന്നത് 10 ആമ്പിയർ ആണ് ഇനി ഒരു കാര്യം ഇത് 50 വോൾട് പിന്നെ ഇതൊരു 25 ഓം റെസിസ്റ്റർ ആണ് ഇനി നോക്കുക ഇവിടെ കറന്റ് എന്നത് പോസിറ്റീവ് ടെർമിനലിൽ ആണ് പ്രവേശിക്കുക പിന്നീട് KVL പഠിക്കുമോൾ ഇതെല്ലാം വളരെ ലളിതമായി തോന്നും എന്നാൽ ആദ്യം തൊട്ടു മനസിലാക്കുക കറന്റ് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴേക്കാണ് പോകുക ഈ കേസിൽ വോൾടേജ് ന്റെ ഡയറക്ഷൻ എന്നത് ഉയരുകയാണ് അപ്പോൾ റെസിസ്റ്റൻസ് എന്നത് 25 ആണ് ഇനി വേണ്ടത് ഈ റെസിസ്റ്റർ നു കുറുകെ ഉള്ള വോൾടേജ് ന്റെ ഡയറക്ഷൻ ആണ് അപ്പോൾ കറന്റ് i 50 ബൈ 25 2 ആമ്പിയർ അല്ലെ ഈ ഡയറക്ഷൻ കാരണമാണ് ഇത് വോൾടേജ് റൈസ് എന്ന് പറയുന്നത് അതിനാലാണ് ഈ നെഗറ്റീവ് സൈൻ അതിനാലാണ് കറന്റ് i 50 ബൈ 25 2 ആമ്പിയർ ആയതു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ വോൾടേജ് സോഴ്സ് ആണ് ഇത് റെസിസ്റ്റർ ഇത് വോൾടേജ് സോഴ്സ് ഇത് ഇവിടെ ഉയർന്ന പൊട്ടൻഷ്യൽ ആണ് അതാണ് വോൾടേജ് റൈസ് ആണ് എപ്പോൾ നിങ്ങൾ KVL പഠിക്കുമോ അപ്പോൾ ഇത് ഈസി ആകും അതിനാൽ പറയാം 2 ആമ്പിയർ ആണ് ഇനി അവസാന ഭാഗം ഓരോ റെസിസ്റ്റർ ലും ചെലവാക്കുന്ന പവർ ആണ് കണ്ടെത്തേണ്ടത് ഇവിടെ കറന്റ് എന്നത് 1 ആംപിയർ ആണ് പിന്നെ റെസിസ്റ്റർ എന്നത് 8 ഈ കേസിൽ അതായത് v2 ബൈ R എന്നത് ഈ 8 Ω റെസിസ്റ്ററിൽ അബ്സോർബ് ചെയ്ത എനർജി ആണ് ഈ ബ്രാക്കറ്റ് ൽ ഞാൻ എഴുതുന്നു ഇവിടെ 8 Ω എന്നതിന്റെ അർഥം v 2 ബൈ R എന്ന പവർ അബ്സോർബ് ചെയ്തിരിക്കുന്നു ഇവിടെ v എന്നത് 8 വോൾട് ആണ് അപ്പോൾ അതിനെ ഈ 8 Ω എന്ന വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതേ കാര്യം തന്നെ കിട്ടും അതിനാൽ 1 1 2 R 8 ആണ് അത് യഥാർത്ഥത്തിൽ 8 വാട്ട് ആണ് അത് 64 ബൈ 8 കൂടെ ആണ് പിന്നെ 12R എന്നതും 8 ആണ് അത് മനസ്സിലാക്കാനാകുന്ന കാര്യം ആണ് അത് പോലെ രണ്ടാമത്തെ സർക്യൂട്ടിൽ G എന്നത് 0 1 Ω ആണ് 1 മോ ആണ് പിന്നെ വോൾടേജ് എന്നത് 100 വോൾട് ഈ സർക്യൂട്ടിൽ ഇത് റെസിസ്റ്റർ ആണ് അതിനാൽ ഈ പവർ അബ്സോർബ് ചെയ്യുകയാണ് ഇനി i എന്നത് 10 ആമ്പിയർ ആണ് അതിനാൽ 10 ബൈ G അതായത് 0 അപ്പോഴും നമുക്ക് അത് തന്നെ കിട്ടും അവസാനം നമുക്ക് കിട്ടും v 2 G അതായതു 100 2 0 1 അത് 1000 വാട്ട് അതുപോലെ ഈ സർക്യൂട് ൽ റെസിസ്റ്റർ 25 Ω ഓം ആണ് കറന്റ് എത്രയാണെങ്കിലും കാര്യമില്ല അതിനാൽ ഇത് v2 ബൈ R 50 2 ബൈ 25 അതോടൊപ്പം lrm R i 2 2 25 അവസാന൦ 100 ഞാൻ ആദ്യം പറഞ്ഞു കറന്റ് ന്റെ ഡയറക്ഷൻ എന്ത് തന്നെ ആയാലും പൊളാരിറ്റി എന്നത് പവർ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും അപ്പോൾ ഈ സൈൻ എന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഈ എല്ലാ കേസുകളിലും അത് 8 വാട്ട് 1000 വാട്ട് 100 വാട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ റെസിസ്റ്റർ ഇവിടെ പവർ സ്വീകരിക്കുക ആണ് ഇനി മറ്റൊരു കാര്യം നോക്കുക അത് ഈ ഫിഗർ 2 7 ൽ നോക്കുക അതൊരു ലളിതമായ സർക്യൂട് ആണ് കറന്റ് i പിന്നെ കണ്ടക്ടൻസ് G പിന്നെ പവർ p ഇതൊരു 30 വോൾട് സോഴ്സ് ആണ് ഇവിടെ ഒരു റെസിസ്റ്റർ അത് 5 Ω ആണ് അതിലൂടെ ഉള്ള കറന്റ് ആണ് i ഇവിടെ നമുക്ക് വേണ്ടത് ഈ റെസിസ്റ്റർ നു കുറുകെ ഉള്ള വോൾടേജ് ആണ് ഇവിടെ മറ്റൊരു എലെമെന്റും ഇല്ലാത്തതിനാൽ അത് 30 വോൾട് ആണ് മനസ്സലിക്കാൻ വേണ്ടി മാത്രം ഈ വോൾടേജ് എന്നത് 30 വോൾട് ആണ് ഇത് എന്നിങ്ങനെ ആണെങ്കിൽ ഇതും ആയിരിക്കും ഇത് 30 വോൾട് ആണെങ്കിൽ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് മനസ്സിലാക്കാനാകുന്ന കാര്യമാണ് ഇത് വളരെ ലളിതമാണ് ഇവിടെ വേറൊരു എലമെന്റ് ഇല്ല അതിനാൽ ഈ വോൾടേജ് എന്ത് തന്നെ ആയാലും അത് തന്നെ ആയിരിക്കും ഇവിടെ എന്തെന്നാൽ വേറെ ഒരു എലമെന്റ് ഇവിടെ ഇല്ല ഇവിടെ ഒരു വോൾടേജ് ഡ്രോപ്പ് ഇല്ല അത് നാം വീണ്ടും കാണും v എന്നത് 30 വോൾട് ആയിരിക്കും ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു അപ്പോൾ ഇവിടെ കറന്റ് എത്ര ആയിരിക്കും ഇവിടെ കറന്റ് എന്നത് i vR 30 ബൈ 5 6 ആമ്പിയർ ആയിരിക്കും അതിനാൽ കണ്ടക്ടൻസ് എന്നത് G 1R ആണ് അതിനാൽ 1 ബൈ 5 അത് 0 2 മോ എന്തെന്നാൽ റേസിപ്രോക്കൽ ആണ് അപ്പോൾ പവർ എന്നത് v i 30 6 അതിനാൽ 180 വാട്ട് ഇത് നമുക്ക് കണക്കു കൂട്ടാം p എന്നത് i 2 R 62 2 എന്തെന്നാൽ ഇത് 6 ആമ്പിയർ ആണ് അപ്പോൾ 62 2 5 ആണ് അതിനാൽ 180 വാട്ട് അല്ലെങ്കിൽ p v2 G ഇവിടെ v എന്നത് 30 വോൾട് ആണ് അതിനാൽ 30 2 0 2 ആണ് അതും 180 വാട്ട് ആണ് ഇങ്ങനെയും കണക്കു കൂട്ടാം എന്നാൽ ഇത് റെസിസ്റ്റർ ആണ് പവർ അബ്സോർബ് ചെയ്യുകയാണ് എല്ലാ കേസിലും സൈൻ പോസിറ്റീവ് ആണ്